മുമ്പ് ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാന ആവശ്യകതകൾ കണ്ടു തുടർന്ന് പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ആ സവിശേഷതകളെ പിന്തുണയ്ക്കാത്തതിന്റെ കാരണങ്ങളെക്കുറിച്ചും ഈ സവിശേഷതകളെ പിന്തുണയ്ക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്നും ചർച്ചചെയ്തു ഈ ഉദ്ദേശ്യത്തോടെ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ വിച്ഛേദിക്കുകയും അത് ചില കാര്യങ്ങൾ ചെയ്യുന്ന കാരണങ്ങൾ പഠിക്കുകയും അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ചർച്ച ചെയ്യുകയും ചെയ്യും റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി യുണിക്സ് ഉപയോഗിക്കുന്നതിനും റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആവശ്യമായ അവസാന പ്രഭാഷണത്തിൽ ചർച്ച ചെയ്ത എല്ലാ സവിശേഷതകൾക്കും പിന്തുണ നൽകേണ്ടതുണ്ട് എന്നാൽ ഇവയെ യുണിക്സ് തൃപ്തികരമായി പിന്തുണയ്ക്കുന്നില്ല മാത്രമല്ല ഒരു റിയൽ ടൈം ആപ്ലിക്കേഷനിൽ യുണിക്സ് ഉപയോഗിക്കുന്നതിന് രണ്ട് പ്രധാന പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ട് ആദ്യത്തേത് പ്രീ എംപ്ട് ചെയ്യാനാവാത്ത കേർണലാണ് യുണിക്സ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതായത് കേർണൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ഇന്റെർപ്റ്റുകളും അപ്രാപ്തമാക്കി രണ്ടാമത്തെ പ്രശ്നം ഡൈനാമിക് പ്രിയോറിറ്റി ലെവലുകൾ ആണ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോ സമയത്തും ഒരു ടാസ്ക്കിന്റെ മുൻഗണന നില മാറ്റിക്കൊണ്ടിരിക്കും ഇത് ചെയ്യുന്നതിന്റെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ ചോദ്യം കേർണൽ റൂട്ടീനുകൾ നടപ്പിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് എല്ലാ തടസ്സങ്ങളെയും അപ്രാപ്തമാക്കുന്നത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഒരു ടാസ്ക്കിന്റെ മുൻഗണന മാറ്റുന്നത് തുടരേണ്ടത് എന്നതാണ് കാരണം ഈ സാഹചര്യത്തിൽ ഒരു റേറ്റ് മോണോടോണിക് ഷെഡ്യൂളർ പോലെ റിയൽ ടൈം സ്ചെടുലെർ പ്രവർത്തിപ്പിക്കാൻ പ്രയാസമാണ് കാരണം പ്രോഗ്രാമർ നിയുക്തമാക്കിയ മുൻഗണനകൾ മാറില്ലെന്ന ധാരണയിൽ ആണ് ഷെഡ്യൂളർ പ്രവർത്തിക്കുന്നത് ഒന്നാമതായി പ്രീ എംപ്റ്റബിൾ കേർണലിനെ റീ എൻട്രൻറ് കേർണൽ എന്നും വിളിക്കുന്നു അവിടെ ഒരു ഇന്റെര്പ്ട് സംഭവിച്ചാൽ കേർണൽ റൂട്ടിന് ആരംഭിക്കുകയും ഇന്റെര്പ്ട് ന് ശേഷം മാത്രമേ നിർത്തുകയുള്ളൂ കുറച്ച് സമയത്തിന് ശേഷം അത് അതേ സ്ഥലത്ത് നിന്ന് തുടരുന്നു അതായത് ഒരു റീ എൻട്രൻറ് കേർണൽ ഇന്റെര്പ്ട് ചെയ്യാം എന്നാൽ പിന്നീട് യുണിക്സ് ഒരു റീ എൻട്രൻറ് അല്ലാത്ത അല്ലെങ്കിൽ പ്രീ എംപ്ട് ചെയ്യാൻ പറ്റാത്ത കേർണലാണ് ഇത് നേടുന്നതിന് എല്ലാ ഇന്റെർപ്റ്റുകളും അപ്രാപ്തമാക്കി അതിനാൽ കേർണൽ ഒഴിവാക്കാൻ കഴിയില്ല ചെയ്യേണ്ട എല്ലാ കോഡുകളും ഇത് പ്രവർത്തിപ്പിക്കുന്നു പക്ഷേ അത് എന്താണ് റീ എൻട്രൻറ് അല്ലാത്തത് എന്തുകൊണ്ട് ഇത് ഇന്റെര്പ്ട്ചെയ്യാൻ കഴിയാത്തത് എന്ന ചോദ്യം ഉയരുന്നു മറ്റ് ചില കോഡുകൾ പ്രവർത്തിക്കുകയും കേർണ കോഡ് അവശേഷിക്കുന്നിടത്ത് നിന്ന് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു മുകളിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല കാരണം അത് കേർണൽ ഡാറ്റാ ഘടനകളുടെ സമഗ്രതയെ നശിപ്പിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാര്യക്ഷമമാക്കുന്നതിന് യുണിക്സ് ഡവലപ്പർമാർ കേർണൽ ലെവൽ ലോക്കുകൾ ഉപയോഗിച്ചില്ല അങ്ങനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായ ഒരു ഡാറ്റാ സ്ട്രക്ചർ പാതിവഴിയിൽ പരിഷ്കരിച്ച് ഒരു പ്രീ എംപ്ഷനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്ന മറ്റൊരു ഭാഗവും ഉണ്ടെങ്കിൽ അത് വായിക്കുന്ന ഈ പൊരുത്തമില്ലാത്ത ഡാറ്റയെ പരിഷ്കരിക്കുകയും പൊരുത്തമില്ലാത്ത സിസ്റ്റത്തിലേക്ക് നയിക്കുകയും സിസ്റ്റത്തെ തകർക്കുകയും ചെയ്യും ഉപയോക്തൃ ടാസ്ക്കുകളും കേർണൽ മോഡിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നം കൂടുതൽ കഠിനമായിരിക്കും അത് മുന്നോട്ട് പോകുമ്പോൾ ചർച്ച ചെയ്യാം പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളായ വിൻഡോസ് യുണിക്സ് മുതലായവയുടെ കേർണൽ പ്രീ എംപ്ട് ചെയ്യാനാകില്ല എന്ന് മനസ്സിലാക്കുന്നതിനാണ് ഇനിപ്പറയുന്ന ചർച്ച പ്രധാന കാരണം കേർണൽ ഡാറ്റാ ഘടനയുടെ സമഗ്രത കാത്തുസൂക്ഷിക്കാനുള്ള കാര്യക്ഷമമായ മാർഗമാണ് ഇത് യുണിക്സ് 5 നെക്കുറിച്ചാണ് തുടർന്ന് യുണിക്സ് വിൻഡോസ് ലിനക്സ് എന്നിവയുടെ പിന്നീടുള്ള പതിപ്പുകൾ കേർണലിനെ പ്രീ എംപ്ട് ചെയ്യാൻ കഴിയുന്നതാക്കി എന്നാൽ പിന്നീടുള്ള സംഭവവികാസങ്ങളിൽ ഇത് ഒരു വലിയ ഹാൻഡിക്യാപ്പ് ആയിരുന്നു അതായത് മുൻകൂട്ടി നിശ്ചയിക്കാനാവാത്ത കേർണൽ ഉള്ളതും കേർണൽ ലെവൽ ലോക്കുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്പ്രധാന കാരണം അതിനാൽ കേർണൽ ഡാറ്റാ ഘടനയുടെ സമഗ്രത കാത്തുസൂക്ഷിക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായ മാർഗമായിരുന്നു തടസ്സങ്ങൾ പ്രവർത്തനരഹിതമാക്കുന്നത് എന്നാൽ ഇത് ഒരു വലിയ ഹാൻഡിക്യാപ്പ് ആയതിനാൽ വിന്ഡോസിന്റെയും യുണിക്സിന്റെയും പിന്നീടുള്ള പതിപ്പുകൾ കേർണൽ ലെവൽ ലോക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ അവർ കേർണലിനെ പ്രീ എംപ്ട്ചെയ്യാൻ കഴിയുന്നതാക്കി കേർണൽ മുൻകൂട്ടി നിശ്ചയിക്കാനാവാത്തതാണെങ്കിൽ ഇത് ഡെഡ് ലൈൻ നഷ്ടപ്പെടാൻ ഇടയാക്കും കാരണം ടാസ്ക്കുകൾ പ്രീ എംപ്ഷൻ സമയം കേർണൽ മോഡിലും കോണ്ടെസ്റ് സ്വിച്ച് സമയത്തിലും ചെലവഴിക്കുന്ന സമയമായി മാറുന്നു കൂടാതെ കേർണൽ മോഡിൽ ചെലവഴിക്കുന്ന സമയം ഏറ്റവും മോശം അവസ്ഥയിൽ ഒരു സെക്കൻഡ് ക്രമത്തിലാകാം കാരണം സാധാരണയായി കോണ്ടെസ്റ് സ്വിച്ച് സമയം ഒരു സെക്കൻഡായി സജ്ജമാക്കുകയും കേർണൽ റൂട്ടിന് ഒരു സെക്കൻഡ് വരെ പ്രവർത്തിപ്പിക്കുകയും ഉയർന്ന മുൻഗണനയുള്ള ഒരു ടാസ്ക് തടയുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു സെക്കൻഡ് ഓടിയാൽ തീർച്ചയായും അതിന്റെ സമയപരിധി നഷ്ടപ്പെടും കാരണം സാധാരണ ഡെഡ് ലൈൻ നൂറു കണക്കിന് മൈക്രോസെക്കന്റുകൾ ആയിരിക്കും പ്രശ്നം കൂടുതൽ വഷളാക്കാൻ ഒരു യൂസർ പ്രോഗ്രാമിന് പോലും കേർണൽ മോഡിൽ എക്സിക്യൂ ചെയ്യാൻ കഴിയും ഒരു യൂസർ പ്രോഗ്രാം ഒരു സിസ്റ്റം കോൾ ചെയ്യുമ്പോൾ അത് കേർണൽ മോഡിൽ പ്രവർത്തിക്കുന്നു ഒരു സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് സൃഷ്ടിക്കുന്നു കൂടാതെ മോഡ് കേർണൽ മോഡിലേക്ക് മാറ്റുന്നു അതിനാൽ ഒരു യൂസർ പ്രോഗ്രാം പ്രവർത്തിക്കുകയും സിസ്റ്റം കോൾ ചെയ്യുകയും ചെയ്യുമ്പോൾ പോലും അത് പ്രീ എംപ്ട് ചെയ്യാനാകില്ല യഥാർത്ഥ യുണിക്സ് ഡവലപ്പർമാർക്ക് കാര്യക്ഷമമായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമായിരുന്നു റിയൽ ടൈം മൾട്ടി പ്രോസസർ ആപ്ലിക്കേഷനുകളിൽ യുണിക്സ് ഉപയോഗിക്കുന്നത് അവർ ദൃശ്യവൽക്കരിച്ചില്ല രണ്ടാമത്തെ പ്രശ്നം ഡൈനാമിക് പ്രിയോറിറ്റി നിലകളാണ് ഞങ്ങൾ യുണിക്സ് ഷെഡ്യൂളർ നോക്കിയാൽ അത് ഒരു മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഉപയോഗിക്കുന്നു ഇത് ടാസ്ക്കുകളെ നിരവധി മുൻഗണനാ ശ്രേണികളായി വിഭജിക്കുന്നു കൂടാതെ ഓരോ ശ്രേണിയിലും ഇത് ഒരു പ്രത്യേക ക്യൂ നിലനിർത്തുന്നു വ്യത്യസ്ത മുൻഗണന ശ്രേണികൾ യൂസർ ലെവെൽസ് ആണ് N യൂസർ ലെവെൽസോ 256 യൂസർ ലെവെൽസോ ഉണ്ട് തുടർന്ന് കേർണൽ പ്രോസസ്സുകൾ യൂസർ പ്രോസസ്സുകളേക്കാൾ ഉയർന്ന മുൻഗണന നൽകുന്നു യൂസർ പ്രോസസ്സുകൾക്ക് കേർണൽ ലെവലിലേക്ക് ശരിക്കും മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല കൂടാതെ മറ്റ് നിരവധി മുൻഗണനാ ബാൻഡുകളുമുണ്ട് അതായത് ഫയലുകൾ ബഫർ ഡിസ്ക് IOdisk IO സ്വേപ്പർ എന്നിവയാണ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും ഉയർന്ന മുൻഗണന സ്ഥിരസ്ഥിതിയായി സിസ്റ്റം ഒരു സെക്കൻഡ് ടൈം സ്ലൈസും യൂസർ ടാസ്ക് അവരുടെ ടൈം സ്ലൈസ് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ അവരുടെ മുൻഗണനകൾ വീണ്ടും കംപ്യൂട്ട് ചെയ്യുന്നു പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു യുണിക്സ് ടാസ്ക്കിന്റെ j ടൈം സ്ലൈസ് ലെ മുൻഗണന അതിന്റെ അടിസ്ഥാനമുന്ഗണനയിൽ കണക്കാക്കുന്നുവെന്ന് കണ്ടെത്തി സിപിയു ഉപയോഗ സമയവും അതിന്റെ സിപിയുവിന്റെ ചരിത്രവും റെക്റൻസ് റിലേഷന്റെ രൂപത്തിൽ തന്നിരിക്കുന്നു j സമയത്തെ സി പി ഉ യൂസേജ് സമയം j 1 സമയത്തെ യൂട്ടിലൈസഷന്റെ പകുതി ആണ് പകുതി പ്രാധാന്യം കഴിഞ്ഞ ടൈം സ്ലൈസിൽ ഉള്ള സി പി ഉ ന്റെ യൂട്ടിലൈസഷൻ ഉം ബാക്കി പകുതി j 1 സമയത്തിനു മുമ്പ് ഉള്ള സി പി ഉ ന്റെ ഹിസ്റ്റോറിയും ആയിരിക്കും മുൻഗണന Pr Ti jഎന്നത് jth യൂസേജ് ടൈം സ്ലൈസിൽ ഉള്ള ടാസ്ക് Ti യുടെ പ്രിയോറിറ്റി ആണ് CPUTi j എന്നത് Ti സി പി ഉ ഉപയോഗിച്ച ചരിത്രം ആണ് UTi j എന്നത് j സമയത്തെ സി പി ഉ യൂട്ടിലൈസഷൻ ആണ് Base Ti j എന്നത് പല ടാസ്കുകളെ പ്രിയോറിറ്റി ബാൻഡിലേക്ക് വേർതിരിക്കുന്നതിനു വേണ്ടി ഉള്ള ഒരു വില ആണ് niceTi j എന്നത് പല ടാസ്കുകളെ പ്രിയോറിറ്റി ബാൻഡിലേക്ക് വേർതിരിക്കുന്നതിനു വേണ്ടി ഉള്ള ഒരു വില ആണ് പ്രോഗ്രാമർ സെറ്റ് ചെയ്യുന്നത് ആണ് nice എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ പ്രോഗ്രാമ്മർക് ഇതിന്റെ പ്രിയോറിറ്റി കുറക്കാൻ മാത്രമേ പറ്റൂ കൂട്ടാനാകില്ല CPUTi j എന്ന പദം ഒരു റേക്കറൻസിന്റെ രൂപത്തിലാണ് നൽകിയിരിക്കുന്നത് അതായത് CPUTi j −1 വെയിറ്റേജിന്റെ പകുതി സിപിയു ഉപയോഗത്തിന്റെ ചരിത്രത്തിന് ഉദാഹരണമായി j 1 നും അതിനുമുമ്പും നൽകിയിരിക്കുന്നു പകുതിയോളം വെയിറ്റേജ് അവസാനമായി ലഭിച്ച സ്ലൈസിൽ നിന്നും അത് എത്രത്തോളം സിപിയു ഉപയോഗിച്ചുവെന്നതിൽ നിന്നും വരുന്നു ഈ റേക്കറൻസ് വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ വ്യത്യസ്ത സമയ സന്ദർഭങ്ങളിൽ ഉപയോഗത്തിന് ജോമെട്രിക്കലായി ഭാരം കുറയുന്നത് കാണുന്നു അവസാനത്തെ ഉദാഹരണം 50 നൽകി അതിനുമുമ്പുള്ള സമയം 25 12 5 ഉടൻ അതിനാൽ കഴിഞ്ഞ സിപിയു ഉപയോഗ ചരിത്രത്തിനായുള്ള ജോമെട്രിക്കലായി കുറച്ച വെയിറ്റേജാണിത് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഒരാൾ ചിന്തിച്ചേക്കാം ഇവിടെ അടിസ്ഥാന മുൻഗണനകളെക്കുറിച്ചാണ് ചർച്ച വികസിപ്പിച്ച മുഴുവൻ മുൻഗണനാ ബാൻഡും വ്യത്യസ്ത മുൻഗണനാ ബാൻഡുകളായ സ്വാപ്പർ ബ്ലോക്ക് IOblock IO ഫയൽ മാനിപുലേഷൻ ക്യാരക്ടർ IOcharacter IO കേർണൽ പ്രോസസ്സ്ഏറ്റവും താഴ്ന്നത് യൂസർ പ്രോസസ്സുകളിൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു ഈ യൂസർ പ്രക്രിയകൾക്ക് മറ്റ് മുൻഗണനാ നിലകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല ഒരു നിശ്ചിത മുൻഗണന നിലയ്ക്ക് അതിന്റെ ബാൻഡ് കടക്കാൻ കഴിയില്ല IO ഒരു തടസ്സമാണ് എന്നതാണ് കേന്ദ്ര ആശയം സിപിയു ഉയർന്ന വേഗതയിൽ പ്രവർത്തിക്കുന്നു ഒരു ടാസ്ക്കിന് അതിന്റെ IO ചെയ്യണമെങ്കിൽ അതിന്റെ മുൻഗണന ഉയർന്നതായിരിക്കണം അല്ലെങ്കിൽ രേസ്പോൻസ് ടൈം കുറവായിരിക്കും IO ചാനലുകൾ കഴിയുന്നത്ര തിരക്കിലാണ് IO ഘട്ടത്തിൽ ഒരു ടാസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മുൻഗണന വർദ്ധിപ്പിക്കുകയും അങ്ങനെ എല്ലാ IO അഭ്യർത്ഥനകളും ഉന്നയിക്കുകയും IO ചാനൽ തിരക്കിലാക്കുകയും ചെയ്യുന്നു അതിനാൽ IO ബന്ധിത ടാസ്ക്കുകൾക്ക് മുൻഗണന കൂടുതൽ നൽകുന്നു അതേസമയം സിപിയു ബന്ധിത ടാസ്ക്കുകൾക്ക് പ്രിയോറിറ്റി കംപ്യൂട്ടിങ്ങ് ഫോർമുല ഉപയോഗിച്ച് മുൻഗണന കുറയ്ക്കുന്നു ശരാശരി ത്രൂപുട്ട് വർദ്ധിപ്പിക്കുന്നതിന് IO മുമ്പത്തെ ഉദാഹരണത്തിൽ സിപിയുവിന്റെ ഉപയോഗം കണക്കാക്കുന്നു വിനിയോഗം കുറവാണെങ്കിൽ അത് IO ചെയ്യുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ ചുമതലയുടെ മുൻഗണന വർദ്ധിക്കുന്നു യുണിക്സിൽ താഴ്ന്നത് മുൻഗണനാ മൂല്യമാണ് ഉയർന്നത് മുൻഗണനയാണ് അതിനാൽ ഉപയോഗം കുറവാണ് അതിനാൽ മുൻഗണന വർദ്ധിക്കുന്നു IO ബന്ധിത പ്രക്രിയകൾ ഉയർന്നതും ഉയർന്ന മുൻഗണനകളിലേക്ക് ആകർഷിക്കുന്നു പക്ഷേ അത്തരമൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു തത്സമയ സാഹചര്യത്തിൽ ഉപയോഗിക്കുക ശ്രമിക്കുകയാണെങ്കിൽ നിർണായക ചുമതല സിപിയു ഉപയോഗിച്ച് വളരെയധികം പ്രോസസ്സ് ചെയ്യുന്നു തുടർന്ന് അതിന്റെ മുൻഗണന കുറയുന്നു അങ്ങനെ അതിൻറെ ഡെഡ് ലൈൻ നഷ്ടപ്പെടും ഹാർഡ് റിയൽ ടൈം അപ്ലിക്കേഷനുകളിൽ ഇത് സ്വീകാര്യമല്ല അങ്ങനെ ഞങ്ങൾ യുണിക്സിന്റെ രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ചർച്ചചെയ്തു അതായത് നോൺ പ്രീ എംറ്റബ്ൾ കെർണൽ ഉം ഡൈനാമിക് പ്രിയോറിറ്റി ലെവലുകളും അതിനാൽ യുണിക്സിന് അതിന്റെ ഡൈനാമിക് പ്രിയോറിറ്റി ലെവലും നോൺ പ്രീ എംറ്റബ്ൾ കേർണലും സോഫ്റ്റ് റിയൽ ടൈംആപ്ലിക്കേഷനുകളിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ മാത്രമല്ല സമയപരിധി മില്ലി അല്ലെങ്കിൽ മൈക്രോസെക്കൻഡുകളുടെ ക്രമമായ ഹാർഡ് റിയൽ ടൈം അപ്ലിക്കേഷനുകൾക്ക് ഇത് അനുയോജ്യമല്ല യുണിക്സ് V ന്റെ പ്രധാന പോരായ്മകൾ ഒരു സെക്കന്റിന്റെ ക്രമത്തിന്റെ ടാസ്ക് പ്രീ എംപ്ഷൻ സമയമാണ്മുൻഗണനകളുടെ ഡൈനാമിക് റീകമ്പ്യൂട്ടേഷനും റിസോഴ്സ് ഷെറിങ് പ്രോട്ടോക്കോളുകളും പിന്തുണയ്ക്കുന്നില്ല കാര്യക്ഷമമല്ലാത്ത ഇന്ററപ്റ്റ് പ്രോസസ്സിംഗ് ഉപകരണത്തിന്റെ തൃപ്തികരമല്ലാത്ത പിന്തുണ എന്നിവയാണ് മറ്റ് കുറവുകൾഒരു പുതിയ സെൻസർ സംയോജിപ്പിക്കാനോ ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വീണ്ടും കംപൈൽ ചെയ്യുന്നതിന് എല്ലാ ജോലികളും നിർത്തുക സിസ്റ്റം അടയ്ക്കുക തുടങ്ങിയവസുരക്ഷാ ഗുരുതരമായ ഹാർഡ് റിയൽ ടൈം സാഹചര്യത്തിൽ സ്വീകാര്യമല്ല എന്നാൽ സിസ്റ്റം പ്രവർത്തിച്ച കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്കു അത് ചെയ്യാൻ സാധിക്കണം യുണിക്സ് 5 ന്റെ പ്രധാന പോരായ്മകൾ ടൈമറുകൾക്കുള്ള പിന്തുണയാണ്റിയൽ ടൈം ഫയൽ പിന്തുണയുടെ തൃപ്തികരമല്ലാത്തതും റിയൽ ടൈംഅപ്ലിക്കേഷനായി ഉപയോഗിക്കാൻ താൽപ്പര്യപ്പെടുന്നെങ്കിൽ ഈ കോഴ്സ് അവസാനിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസാന പ്രശ്നം POSIX ആണ് POSIXന്റെ ഉത്ഭവം നിരീക്ഷിച്ചപ്പോൾ യുണിക്സ് വികസിപ്പിച്ചെടുത്തത് AT T എന്നാണ് അറിയേണ്ടി ഇരുന്നത് എന്നാൽ AT T ഇത് പല ആളുകൾക്കു വീതിച്ചു നൽകി യുണിക്സ് കോഡ് ആവശ്യമുള്ളവർക്ക് AT T വിതരണം ചെയ്തു കാരണം അക്കാലത്ത് ATT ഒരു ടെലികോം കമ്പനിയായിരുന്നു അതിനാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു ഇത് ലഭിച്ചവർ വിവിധ രീതികളിൽ വിപുലീകരിച്ചു അതായത് IBM AIX ആയി HP HP UX ആയി Sun Solaris ആയി ഡിജിറ്റൽ കോർപ്പറേഷൻ അൾട്രിക്സ് ആയി എന്നിങ്ങനെ അതിനാൽ യുണിക്സ് കോഡ് AT T യിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ഇത് വിവിധ വെണ്ടർമാർ വിവിധ രീതികളിൽ വിപുലീകരിച്ചു അതിനാൽ യുണിക്സ് കോഡ് പൊരുത്തപ്പെടുന്നില്ല ഒരു അപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കുകയും ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലിക്കേഷൻ എഴുതുകയും ചെയ്യുമ്പോൾ അത് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കില്ല വ്യത്യസ്ത യുണിക്സ് വ്യത്യസ്ത സേവനങ്ങൾ വാഗ്ദാനം ചെയ്തതിനാൽ സിന്റാക്സും സർവീസ് സെമാന്റിസും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനാൽ ഒരു പതിപ്പിൽ ഒരു കോഡ് വികസിപ്പിച്ചെടുക്കുമ്പോൾ അത് മറ്റൊരു പതിപ്പിൽ പ്രവർത്തിക്കില്ല ഉറവിട കോഡ് തലത്തിൽ കോഡ് അനുയോജ്യമാക്കുന്നതിന് POSIX ശ്രമിച്ചു അത് പോർട്ടബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ സൂചിപ്പിക്കുന്നു IX നെക്കുറിച്ച് ഒരാൾ ചിന്തിച്ചേക്കാം യുണിക്സ് മാനദണ്ഡങ്ങൾ പോലെ തോന്നിപ്പിക്കുന്നതിനുള്ള പോർട്ടബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ POSന് ഇത് ഒരു സഫിക്സ് മാത്രമായിരുന്നു എന്നാൽ ഇത് വളരെ പ്രചാരത്തിലായപ്പോൾ യുണിക്സ് ഇതര ഓപ്പറേറ്റിംഗ് സിസ്റ്റവും POSIX മായി പൊരുത്തപ്പെടുന്നു അതിനാൽ POSIX ഒരു വലിയ വിജയമായിരുന്നു POSIX ന്റെ പ്രധാന ആശങ്ക ആപ്ലിക്കേഷനുകളുടെ പോർട്ടബിലിറ്റിയാണ് അതായത് വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ എഴുതിയിരിക്കുന്നു ഇപ്പോൾ POSIX വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു യുണിക്സ് ഇതര ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ പോലും POSIX സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നു POSIX ഒരു അന്താരാഷ്ട്ര നിലവാരമായി അംഗീകരിച്ചു IEEE P1003 ISO standard 9945 തുടങ്ങിയവ POSIX നെ ഒരു സ്റ്റാൻഡേർഡായി അംഗീകരിക്കുന്നു സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റായ POSIXലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോളുകൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്കുള്ള ഇന്റർഫേസുകൾ എന്തായിരിക്കണമെന്നും കോളുകൾ വിളിച്ചുകഴിഞ്ഞാൽ എന്തുസംഭവിക്കണമെന്നും മാത്രമാണ് ഇത് നിർവചിക്കുന്നതെന്ന് അവർ കണ്ടെത്തും ഇതിനെ കോളിന്റെ സെമാന്റിക്സ് എന്ന് വിളിക്കുന്നു എന്നാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോളുകൾ നടപ്പിലാക്കേണ്ട രീതിയെക്കുറിച്ച് ഇത് അറിയിക്കുന്നില്ല ഇത് എടുക്കേണ്ട പാരാമീറ്ററുകൾ കോളുകളുടെ പേര് അത് നേടേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഇത് അറിയിക്കുകയുള്ളൂ പക്ഷെ അത് കൃത്യമായി എഴുതേണ്ട രീതിയെക്കുറിച്ച് അത് അറിയിക്കുന്നില്ല നിരവധി ഡോക്യുമെൻറുകൾ ഉണ്ട് ഒന്ന് POSIX 1 ഇത് സിസ്റ്റം ഇന്റർഫേസുമായി ബന്ധപ്പെട്ടതാണ് ഇത് സിസ്റ്റം റുടീനുകളെ ക്കുറിച്ചും അവയുടെ പാരാമീറ്ററുകളെക്കുറിച്ചും സെമാന്റിക്സിനെക്കുറിച്ചും ആണ് ഓപ്പറേറ്റിങ് സിസ്റ്റം POSIX കംപ്ലയിന്റും നാലാമത്തെ പ്രമാണവുമാണോയെന്ന് പരിശോധിക്കുന്നതിനുള്ള മാർഗ്ഗം POSIX 2 ഷെല്ലുകളുമായും യൂട്ടിലിറ്റികളുമായും കൈകാര്യം ചെയ്യുന്നു POSIX 4 റിയൽ ടൈം എക്സ്റ്റെൻഷനുകളായ POSIX RT കൈകാര്യം ചെയ്യുന്നു റിയൽ ടൈം POSIXനെക്കുറിച്ചാണ് ഇനിപ്പറയുന്നത് ചില സവിശേഷതകളെ പിന്തുണയ്ക്കുന്നതിന് ഇതിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ് അപ്പോൾ മാത്രമേ ഇത് RT POSIX പരാതിയായി മാറുകയുള്ളൂ ആദ്യത്തേത് പ്രീഎംറ്റീവ് പ്രിയോറിറ്റി അടിസ്ഥാനമാക്കിയുള്ള ഷെഡ്യൂളിംഗ് ആണ് ഇത് ചില പ്രകടന അളവുകൾ നിർവചിക്കുന്നു അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിവിധ സിസ്റ്റം കോളുകൾക്കായി എക്സിക്യൂഷൻ സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും മോശം അവസ്ഥയെ തൃപ്തിപ്പെടുത്തണം ഇതിന് സ്റ്റാറ്റിക് പ്രിയോറിറ്റി ക്കുള്ള പിന്തുണ ആവശ്യമാണ് പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാറ്റിക് പ്രിയോറിറ്റി കളെ പിന്തുണയ്ക്കുന്നില്ലെന്ന് കണ്ടു എന്നാൽ ഇപ്പോൾ പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ പലതും സ്റ്റാറ്റിക് പ്രിയോറിറ്റി കളെ പിന്തുണയ്ക്കുന്നു ഇതിന് കുറഞ്ഞത് 32 പ്രിയോറിറ്റി ലെവലുകൾ പിന്തുണയ്ക്കേണ്ടതുണ്ട് അബ്സോല്യൂട്ടും റിലേറ്റീവും ആയ ടൈമറുകൾ പിന്തുണയ്ക്കുകയും ഹൈ പ്രെസിഷൻ ടൈമറുകൾ നൽകുന്നതിന് നാനോ സ്ലീപ്പ് ഫംഗ്ഷനും ആവശ്യമാണ് വെർച്വൽ മെമ്മറിയിൽ ഒരു പേജ് ലോക്ക് ചെയ്യാൻ Mlock മുഴുവൻ അഡ്രസ് സ്പേസും ലോക്കുചെയ്യാൻ Mlockall ഒരു പേജ് അൺലോക്കു ചെയ്യാനുള്ള Munlock എല്ലാം പിന്തുണയ്ക്കേണ്ടതാണ്

മുൻകൂട്ടി അനുവദിച്ചതും തുടർച്ചയായതുമായ ഫയലുകൾ പിന്തുണയ്ക്കുന്നതിന് മൾട്ടി ത്രെഡിംഗ് റിയൽ ടൈം ഫയൽ സിസ്റ്റം എന്നിവ പിന്തുണയ്ക്കേണ്ടതാണ് റിയൽ ടൈം ആപ്ലിക്കേഷനുകളിൽ പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നതിൽ മുമ്പ് ചില പ്രശ്നങ്ങൾ കണ്ടു യുണിക്സിലേക്കും നോക്കി തുടർന്ന് യുണിക്സ് ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഉപയോഗിച്ചാൽ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ പരിശോധിച്ചു എല്ലാ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പിന്തുണയ്ക്കേണ്ട POSIX റിയൽ ടൈം സ്റ്റാൻഡേർഡ് പരിശോധിച്ചു ഈ മാനദണ്ഡത്തിന്റെ പ്രധാന ആവശ്യകതകൾ പരിശോധിച്ചു ആവശ്യകതകളിലൊന്ന് സ്റ്റാറ്റിക് പ്രിയോറിറ്റി ലെവലുകൾ 32 പ്രിയോറിറ്റി ലെവലുകൾപ്രീ എംപ്റ്റബ്ൾ പ്രിയോറിറ്റി അടിസ്ഥാനമാക്കിയുള്ള സ്ചെടുലിങ് ഉപയോഗിച്ചു നടപ്പിലാക്കാവുന്ന സ്ചെടുലേറും ആയിരിക്കണം നമ്മൾ മിക്കവാറും കോഴ്സിന്റെ അവസാനത്തിലാണ് കോഴ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് കുറച്ച് പരിശീലന ചോദ്യങ്ങൾ ചുവടെ ചേർക്കുന്നു ടാസ്ക്കുകൾ റിസോഴ്സ്കൾ പങ്കിടുമ്പോൾ ഉണ്ടാകുന്ന നിർണ്ണായകമായ ഒരു പ്രശ്നം റിസോഴ്സ് ഷെറിങ്ങിനു വേണ്ടത്ര പിന്തുണയില്ലെങ്കിൽ പ്രിയോറിറ്റി ഇൻവെർഷൻ പ്രശ്നം സൃഷ്ടിക്കുന്നു പ്രിയോറിറ്റി ഇൻവെർഷൻ പ്രശ്നം എന്താണ് മനസിലാക്കുന്നത് അത് എങ്ങനെ ഉണ്ടാകുന്നു ഈ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുക അതായത് പ്രിയോറിറ്റി ഇൻവെർഷൻ അൺ ബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്നിവ അടുത്ത ചോദ്യം നിരവധി ടാസ്ക്കുകൾ ഒരു കൂട്ടം ക്രിട്ടിക്കൽ റിസോഴ്സ്കൾ പങ്കിടുമ്പോൾ പ്രിയോറിറ്റി ഇൻവെർഷൻ ഒഴിവാക്കാൻ കഴിയുമോ മാത്രമല്ല പ്രിയോറിറ്റി ഇൻവെർഷൻ പൂജ്യമാക്കാൻ കഴിയുമോ ഏതെങ്കിലും പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് വിഭവങ്ങൾ പങ്കിടുന്ന ടാസ്ക്കുകൾ ഉള്ളപ്പോൾ ഏതെങ്കിലും റിസോഴ്സ് ഷെറിങ് പ്രോട്ടോക്കോൾ അതായത് മുൻഗണന സീലിംഗ് പ്രോട്ടോക്കോൾ ഹൈസ്റ് ലോക്കറോ ലളിതമായ ഇൻഹെറിറ്റൻസ് ബേസ്ഡ് പ്രോട്ടോക്കോളോ ആകാം ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല കാരണം കുറഞ്ഞ മുൻഗണനയുള്ള ഒരു ടാസ്ക് റിസോഴ്സ് കൈവശം വച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്ന മുൻഗണനയുള്ള ചുമതല കാത്തിരിക്കേണ്ടതുണ്ട് അതിനാൽ കുറഞ്ഞത് ഒരു പ്രിയോറിറ്റി ഇൻവെർഷൻ എങ്കിലും സംഭവിക്കണം അതിനാൽ ഉപയോഗിക്കുന്ന റിസോഴ്സ് ഷെയറിംഗ് പ്രോട്ടോക്കോൾ എന്തുതന്നെയായാലും പ്രിയോറിറ്റി ഇൻവെർഷനുകളെല്ലാം ഒഴിവാക്കാൻ കഴിയില്ല മൂന്നാമത്തെ ചോദ്യം ഒരു നിർദ്ദിഷ്ട ചോദ്യമാണ് പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പദ്ധതി ഉപയോഗിക്കുമ്പോൾ പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോൾ ആയിരിക്കുമ്പോഴും ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ഇൻവെർഷൻ എന്നാൽ ഒരു ഉദാഹരണം നൽകുമ്പോഴും ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ഇൻവെർഷൻ എന്നാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ഒരു കൂട്ടം തത്സമയ ടാസ്ക്കുകൾ ചില നിർണായക ഉറവിടങ്ങൾ പങ്കിടുമ്പോൾ ഉയർന്ന മുൻഗണനാ ചുമതലയിൽ ഇൻവെർഷനുകൾ ഒന്നും ഉണ്ടാകില്ലെന്നത് ശരിയാണോ തെറ്റാണ് കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് ഇതിനകം തന്നെ ഒരു റിസോഴ്സ് കൈവശം വയ്ക്കുകയും ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് പ്രാപ്തമാക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് ബാധിക്കില്ലെന്ന് പറഞ്ഞാൽ ഉത്തരം തെറ്റാണ് ഇത് ഈ കോഴ്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ചില അടിസ്ഥാന വശങ്ങൾ പരിശോധിച്ചു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു റിയൽ ടൈം അല്ലാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടു ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൈകാര്യം ചെയ്യേണ്ട പ്രധാന പ്രശ്നമായി റിയൽ ടൈം ടാസ്ക്കുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് പരിഗണിക്കുകയും പ്രധാനപ്പെട്ട ടാസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതങ്ങൾചർച്ച ചെയ്യുകയും ചെയ്തു ഒരു പ്രോസസ്സറിൽ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുമോയെന്നറിയാൻ ടാസ്ക്കുകളുടെ വിശകലനം പരിശോധിച്ചു വിഭവ പങ്കിടൽ പ്രശ്നങ്ങൾ പരിശോധിച്ചു തുടർന്ന് മൾട്ടിപ്രൊസസ്സർ ഷെഡ്യൂളിംഗിലേക്ക് നോക്കി റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് പിന്തുണ നൽകേണ്ട ചില പ്രശ്നങ്ങൾ അവസാനമായി നോക്കുകയായിരുന്നു പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് അതിനുള്ള പിന്തുണയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അന്വേഷിച്ചു അതിനുശേഷം ചില പരിഹാരങ്ങൾ വിശദീകരിക്കുകയോ വാഗ്ദാനം ചെയ്യുകയോ ചെയ്തു എല്ലാ റിയൽ ടൈംഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും അവ പിന്തുടരുന്നു